ഇപ്പോൾ അനലോഗ് സർക്യൂട്ടുകളുടെ ആദ്യ അസൈൻമൻറ്റിന്റെ ഉത്തരം നമ്മൾ ചർച്ച ചെയ്യും ആദ്യത്തെ പ്രോബ്ലം ഇവിടെ ചില കറൻറ് സോഴ്സ് ഡയോഡ് ചില വോൾട്ടേജ് സോഴ്സ് എന്നിവ ബന്ധിപ്പിച്ചിരിക്കുന്നു കറൻറ് സോഴ്സ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്രമീകരിക്കുന്നതിനെക്കുറിച്ചും ഈ സോഴ്സ് ഇൻക്രിമെന്റൽ സിഗ്നൽ സോഴ്സായും ചിന്തിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു ഈ പ്രശ്നങ്ങളിലെല്ലാം നമ്മൾ ലീനിയർ ഘടകങ്ങൾ ഉൾപ്പെടുത്തുന്നു രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്ന് ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടെത്തുന്നതും തുടർന്ന് നോൺ ലീനിയർ എലമെന്റിനെ ശരിയായ ഇൻക്രിമെന്റൽ ഇക്യുവാലന്റ് സർക്യൂട്ട് ഉപയോഗിച്ച് മാറ്റിയതിന് ശേഷം ഇൻക്രിമെന്റൽ വിശകലനം നടത്തുന്നതും ഈ സാഹചര്യത്തിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് വിശകലനത്തിനായി നമ്മൾ ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു അതിനാൽ നമുക്ക് ഈ സർക്യൂട്ട് I0 ഉണ്ട് അത് 2 7 mA ആണ് കൂടാതെ 2 kΩ ഗ്രൌണ്ടിലേക്ക് ഉണ്ട് കൂടാതെ ഈ വശത്ത് മറ്റൊരു 2 kΩ ഉണ്ട് അതായത് 1 kΩ ഉം 1 kΩ ഉം ഗ്രൌണ്ടിലേക്ക് ഇവിടെ നമുക്ക് ഡയോഡ് ഉണ്ട് ഡയോഡിനുള്ള നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് മോഡൽ ഇതിന് 0 7 V വോൾട്ടേജ് ഉണ്ടെന്ന് അനുമാനിക്കുക എന്നതാണ് അതിനർത്ഥം ഈ റെസിസ്റ്ററിലൂടെ 0 35 mA ഉണ്ടെന്ന് അർത്ഥമാക്കുന്നു കാരണം ഇത് 2 kΩ ആണ് ഇവിടെയും 0 35 mA ഒഴുകുന്നു അതിനാൽ ഡയോഡിൽ പ്രവഹിക്കുന്ന യഥാർത്ഥ കറൻറ് 2 7 mA മൈനസ് 2 mA വരെ വരുന്ന ഈ കറൻറുകളാണ് അതിനാൽ ഡയോഡിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് 2 mA ആണ് അപ്പോൾ 2mA ന് ഡയോഡിനെ ഒരു റെസിസ്റ്റർ ഉപയോഗിച്ച് പ്രതിനിധീകരിക്കാം ഇത് ഇല്ലാതാകും നമുക്ക് ഒരു റെസിസ്റ്റർ ഉണ്ടാകും റെസിസ്റ്ററിന്റെ മൂല്യം എന്താണ് ഇത് Vt ബൈ ഡൈയോഡ് കറൻറ് ആണ് അത് 12 5 Ωആണ് അപ്പോൾ ഇത് 12 5 Ωആകുന്നു കൂടാതെ ഈ I0 അവിടെയില്ല അതിനാൽ ഇപ്പോൾ നമുക്ക് ഒരു ലീനിയർ സർക്യൂട്ട് ഉണ്ട് ഇവിടെ ഏറ്റവും ഉയർന്ന മൂല്യം 100 mV ആണ് ഔട്ട്പുട്ടിന്റെ ഏറ്റവും ഉയർന്ന മൂല്യം കണക്കാക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഇൻപുട്ട് 100 mV ആയിരിക്കുമ്പോൾ നിങ്ങൾ ഔട്ട്പുട്ട് കണക്കാക്കണം അതിനുള്ളതെല്ലാം അതാണ് 5 Ω 1 kΩ 1 kΩ എന്നിവയും കൂടാതെ ഇത് ലീനിയർ നെറ്റ്വർക്ക് വിശകലനമാണ് ഇതിന്റെ ഘട്ടത്തിലേക്ക് ഞാൻ പോകുന്നില്ല വിവിധ രീതികളിൽ നമുക്ക് ഇത് എളുപ്പത്തിൽ പരിഹരിക്കാനാകുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ഇത് പരിഹരിച്ചാൽ ഈ വോൾട്ടേജ് 0 308 mV ആയിരിക്കും കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഒറ്റ ദശാംശ സ്ഥാനത്തേക്ക് റൌണ്ട് ചെയ്താൽ അത് 0 3 mV ആയിരിക്കും അല്ലെങ്കിൽ 0 3 അണ് ഉത്തരത്തിന്റെ ന്യൂമെറിക്കൽ പാർട്ട് രണ്ടാമത്തെ പ്രശ്നം I0 മൈനസ് 2 7 mA ആണെന്നതൊഴിച്ചാൽ സർക്യൂട്ട് സമാനമാണ് അതിനാൽ നമുക്ക് എന്താണ് ഉള്ളത് ഇൻക്രിമെന്റ്റൽ സോഴ്സ് പൂജ്യമാണെന്ന് വീണ്ടും ഊഹിച്ചുകൊണ്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് കണക്കാക്കുന്നു ആ ദിശയിൽ നമുക്ക് 2 7 mA സോഴ്സുണ്ട് 1 kΩ ഉം 1 kΩ ഉം ഡയോഡ് ഇവിടെയുണ്ട് ഇപ്പോൾ ഡയോഡ് ഓണാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഈ വഴിയിലൂടെയും ആ വഴിയിലൂടെയും ഒരു കറൻറ് ഉണ്ടായിരിക്കണം കാരണം ഈ വോൾട്ടേജ് 0 7 V ആയിരിക്കും അത് 0 7 V ആയതുകൊണ്ടു ഇതിലൂടെയും എന്നാൽ കിർചോഫിന്റെ കറൻറ് നിയമം ഇവിടെ തൃപ്തിപ്പെടുന്നില്ല അതിനാൽ ഡയോഡ് ഓഫാണ് എന്നതാണ് സ്ഥിരമായ അവസ്ഥ ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നവുമായി മുന്നോട്ട് പോകാൻ ഇത് മതിയാകും എന്നിരുന്നാലും നമുക്ക് ഇത് പൂർത്തിയാക്കി കാണാനാകും അങ്ങനെയാണെങ്കിൽ 1 35 mA ആ വഴി ഒഴുകുന്നതും ഒരു 1 35 mA ആ വഴി ഒഴുകുന്നതും നിങ്ങൾക്ക് കാണാം ഇവിടെ വോൾട്ടേജ് മൈനസ് 2 7 V ആണ് വ്യക്തമായി ഡയോഡ് റിവേർസ് ബയാസിലാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ ഡയോഡ് ഇൻക്രിമെന്റൽ ചിത്രത്തിൽ ഒരു ഓപ്പൺ സർക്യൂട്ടാണ് കാരണം റിവേഴ്സ് ബയസിൽ ഡയോഡ് ഇൻക്രിമെന്റൽ റെസിസ്റ്റൻസ് അനന്തമാണ് കറൻറ് സോഴ്സ് ഇൻക്രിമെന്റൽ ചിത്രത്തിൽ ഒരു ഓപ്പൺ സർക്യൂട്ടാണ് അതിനാൽ നമുക്കുള്ളത് ഈ റെസിസ്റ്റീവ് വോൾട്ടേജ് ഡിവൈഡറിലൂടെ കടന്നുപോകുന്ന ഈ 100 mV മാത്രമാണ് ഇവിടെ നിന്ന് പുറത്തുവരുന്നത് 100 mV ഡിവൈഡെഡ് ബൈ 4 അല്ലെങ്കിൽ 25 mV ആണ് അതാണ് ഇവിടെ ദൃശ്യമാകുന്ന സിനുസോയിഡിന്റെ ഏറ്റവും ഉയർന്ന മൂല്യം അതിനാൽ ഔട്ട്പുട്ട് 25 ആണ് ഇത് mVയിലെ വോൾട്ടേജിന്റെ ന്യൂമറിക്കൽ മൂല്യമാണ് മൂന്നാമത്തെ ചോദ്യം അതിൽ രണ്ട് ലൂപ്പുകളും മൂന്ന് ഡയോഡുകളുമുണ്ട് അതിനാൽ കുറച്ചുകൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും മെഷ് വിശകലനം നിങ്ങൾക്ക് പരിചിതമാണെങ്കിൽ നിങ്ങൾക്കിത് പരിഹരിക്കാനാകും മെഷ് വിശകലനം നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം ഇപ്പോൾ ഇതിനെ ഞാൻ കറൻറ് i1 എന്നും i2 എന്നും വിളിക്കാം ഈ കറൻറ് i1 -i2 ആണ് മെഷ് കറൻറ് i1 i2 ഉപയോഗിച്ച് മെഷ് വിശകലനം ചെയ്യുന്നതിനോട് തുല്യമാണ് ഇപ്പോൾ മൂന്ന് ഡയോഡുകളുണ്ട് തന്മൂലം ഏതെങ്കിലും ഡയോഡുകൾ ഓണും ഓഫും ആയിരിക്കാനുള്ള എട്ട് സാധ്യതകളുണ്ട് എല്ലാ ഡയോഡുകളും ഓണായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആദ്യം തുടങ്ങാം എല്ലാ ഡയോഡുകളും ഓണാണെങ്കിൽ അവ 0 7 V വോൾട്ടേജ് ഡ്രോപ്പ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം അതിനാൽ ഇവിടെ നമുക്ക് 19 4 V ഉണ്ട് ഇവിടെ എനിക്ക് 0 7 V ഡ്രോപ്പ് ഉണ്ട് ഡയറക്ഷൻ ശ്രദ്ധിക്കുക ഇത് ഡയോഡിന്റെ പ്ലസ് മുതൽ മൈനസ് വരെയാണ് ഇത് ഓണാണെന്ന് അനുമാനിക്കുന്നു അതിനാൽ മൂന്ന് ഡയോഡുകളും ഓണാണെന്ന് കരുതുക അവ ഓരോന്നും 0 7 V വോൾട്ടേജ് ഡ്രോപ്പ് കാണിക്കുന്നു V2 6 V ആണ് ഇപ്പോൾ നിങ്ങൾക്ക് മെഷ് സമവാക്യങ്ങൾ എഴുതാം അല്ലെങ്കിൽ ഈ കറന്റ് i1 ആണെന്നും ഇത് i2 ആണെന്നും നിങ്ങൾക്ക് ചിന്തിക്കാം കൂടാതെ ഈ രണ്ട് ലൂപ്പുകൾക്ക് ചുറ്റും സമവാക്യം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് സമവാക്യങ്ങളും ലഭിക്കും അത് 4 kΩi1 2 kΩi2 18 Vഉം 2 kΩi1 4 kΩi2 6 Vഉം ആണ് ഇത് എങ്ങനെ എഴുതാമെന്ന് ഞാൻ വിശദീകരിക്കാം പക്ഷേ നിങ്ങൾക്ക് ലീനിയർ സർക്യൂട്ട് വിശകലനം പരിചിതമാണെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ഇത് പരിഹരിച്ചാൽ i1 5 mA ഉം i2 1 mA ഉം ആയിരിക്കും അതിനാൽ ഈ ഡയോഡിൽ അതിലൂടെ പോകുന്ന കറൻറ് i1 ആണ് ഇത് പോസിറ്റീവ് 5 mA ആണ് ഇത് അത് ഓണാണെന്ന് കാണിക്കുന്നു ഈ ഡയോഡിന് ഈ അനുമാനം സ്ഥിരമാണ് മൂന്ന് ഡയോഡുകളും ഓണാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു i2 ആണ് ഈ ഡയോഡിലൂടെ ഒഴുകുന്ന കറൻറ് ഇത് 1 mA യും പോസിറ്റീവും ആണ് അതിനാൽ ഇത് ഓണാണെന്ന് കരുതുന്നത് ശരിയാണ് i1 മൈനസ് i2 എന്നത് 5 മൈനസ് 1 4 mA ആണ് അതിനാൽ ഈ ഡയോഡും ഓണാണ് അതിനാൽ അതിനാൽ മൂന്ന് ഡയോഡുകളും ഓണാണെന്ന നമ്മുടെ ധാരണ യഥാർത്ഥത്തിൽ ശരിയാണ് അതിനാൽ ഇവയാണ് പരിഹാരങ്ങൾ മൂന്ന് ഡയോഡുകളും ഓണാകും ഒപ്പം i1 i2 എന്നിവയായിരിക്കും ഈ മൂല്യങ്ങൾ ഒപ്പം പവർ ഡിസിപേഷൻ Rx നു വേണ്ടി ആവശ്യപ്പെട്ടു Rx ലൂടെ ഒഴുകുന്ന കറൻറ് i1 -i2 അല്ലെങ്കിൽ 4 mA ആണ് അതിനാൽ Rx ലെ പവർ ഡിസിപേറ്റഡ് 2 2 kΩ ആണ് അത് 32 mW ആണ് അതിനാൽ ഉത്തരത്തിന്റെ ന്യൂമറിക്കൽ ഭാഗം 32 ആണ് ഇപ്പോൾ നമുക്ക് ഒരേ പോലത്തെ സർക്യൂട്ട് ഉണ്ട് പക്ഷേ V1 V2 ന്റെ മൂല്യം വ്യത്യസ്തമാണ് മൂന്ന് ഡയോഡുകളും ഓണാണെന്ന് നിങ്ങൾ വീണ്ടും ഊഹിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ നോക്കാം അതിനാൽ ഇവ ഓരോന്നും 0 7 V വോൾട്ടേജ് ഡ്രോപ്പുകൾ ഉപയോഗിച്ച് ആ ദിശയിൽ മാറ്റിസ്ഥാപിക്കും സമവാക്യങ്ങളിൽ വീണ്ടും ഈ കറന്റ് i1 ഉം i2 ഉം ആണെന്ന് അനുമാനിക്കും അതിനാൽ ഈ കറന്റ് i1 -i2 ആയിരിക്കണം ഈ രണ്ട് ലൂപ്പുകളായ രണ്ട് മെഷുകൾക്ക് ചുറ്റും നിങ്ങൾ സമവാക്യം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 kΩ i1 2 kΩ i2 12 V 2 kΩ i1 4 kΩ i2 18 V ലഭിക്കും ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഇത് പരിഹരിച്ചാൽ i1 1 mA ഉം i2 4 mA ഉം ആയിരിക്കും അതിനാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് ഇത് ഉടൻ തന്നെ നിങ്ങളോട് പറയുന്നു i2 ഈ ദിശയിലാണ് ഡയോഡിലൂടെ പോകുന്നത് ഈ ഡയോഡിലൂടെയുള്ള ഫോർവേഡ് ബയസ് കറന്റാണ് ഇത് അതായത് 4 mA അതിനാൽ 4 mA ഈ ഡയോഡിലൂടെ റിവേഴ്സ് ബയസിൽ ഒഴുകുന്നുവെന്ന് ശരിക്കും പറയുന്നു അതിനാൽ ഈ ഡയോഡ് ഓണാണെന്ന നമ്മുടെ ധാരണ തെറ്റാണെന്ന് ഇത് അർത്ഥമാക്കുന്നു അതിനാൽ നമ്മൾ മറ്റ് സാധ്യതകൾ പരീക്ഷിക്കണം അതിനാൽ നമുക്ക് ഇത് പരീക്ഷിക്കാം കാരണം ഇതിലെ ഡയോഡ് കറന്റ് നെഗറ്റീവ് ആയതിനാൽ ഈ ഡയോഡ് മാത്രം ഓഫാണെന്ന് നമുക്ക് അനുമാനിക്കാം നമുക്ക് ഇത് ഇതുവരെ അറിയില്ല പക്ഷേ ഈ ഡയോഡ് ഓഫാണെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ ഡയോഡ് ഓഫാണെങ്കിൽ അതിനർത്ഥം ഈ കറന്റ് പൂജ്യമാണെന്നാണ് കാരണം ഇത് ഓഫാണ് കൂടാതെ നമുക്ക് കണക്കുകൂട്ടൽ നടത്താൻ ഒരൊറ്റ ലൂപ്പ് മാത്രമേയുള്ളൂ അതിനാൽ നമുക്ക് എന്ത് ലഭിക്കും നമുക്ക് 4 kΩ i1 12 V ലഭിക്കും അതിനാൽ i1 3 mA ആയിരിക്കും അതിനാൽ ഇത് 3 mA ആണെങ്കിൽ ഇത് ഓഫാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ ഇവിടെ ഒഴുകുന്ന കറൻറ് 3 mA ആയിരിക്കും അതിനാൽ അത് ശരിയാണ് ഇത് ഓണാണ് അതേ കറൻറ് ഇതിലേക്കും ഒഴുകുന്നു അത് 3 mA ആണ് അതിനാൽ ഇതും ഓണാണെന്ന് കരുതുന്നതിൽ കുഴപ്പമില്ല ഈ ഡയോഡ് യഥാർത്ഥത്തിൽ ഓഫാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അത് എങ്ങനെ ചെയ്യാം 3 mA ഇവിടെ ഒഴുകുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് 6 V ഉണ്ട് ഇതിന് കുറുകേ നിങ്ങൾക്ക് 0 7 V ഉണ്ട് അതിനാൽ ഈ പോയിന്റിനും ഗ്രൌണ്ടിനും ഇടയിൽ നമുക്ക് 6 7 V ഉണ്ട് ഇവിടെയുള്ള കറൻറ് പൂജ്യമാണ് അതിനാൽ ഇതിലൂടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് പൂജ്യമാണ് ഈ പോയിന്റും ഗ്രൌണ്ടും തമ്മിലുള്ള വോൾട്ടേജ് V2വിനു തുല്യമാണ് അത് 18 V ആണ് അതിനാൽ നിങ്ങൾക്ക് ഈ വശത്ത് 18 V ഉം ആ ഭാഗത്ത് 6 7 V ഉം ഉണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും അതിനാൽ ഈ ഡയോഡ് യഥാർത്ഥത്തിൽ റിവേഴ്സ് ബയാസ്ട് ആണ് അതിനാൽ നമ്മുടെ അനുമാനങ്ങൾ ശരിയാണ് ഇങ്ങനെ നിങ്ങൾ ഉത്തരം കണക്കാക്കിയതിനു ശേഷം ഓരോ ഡയോഡിനുമായുള്ള നിങ്ങളുടെ അനുമാനം ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിനാൽ ഇത് ശരിയാണ് അവസാനത്തേത് മുമ്പു ചെയ്തതിനു തുല്യമാണ് Rx ലെ പവർ എന്നത് Rx ലെ കറൻറ് സ്ക്വൊയർ അതായത് 2 2 kΩ ആണ് അത് 18 mW ആയി കിട്ടും ഇതാണ് ഉത്തരം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ മറ്റൊരു ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്രമീകരണമുള്ള മറ്റൊരു ഡയോഡ് സർക്യൂട്ട് എടുക്കാം ഇവിടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് സോഴ്സ് ആണ് സജ്ജീകരിക്കുന്നതെന്ന് വിചാരിക്കുക സിനുസോയ്ഡൽ സിഗ്നൽ ഇൻക്രിമെന്റ് ആണ് ഇപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റിനായി എനിക്ക് ഹാഫ് എ mA ഉം മൂന്ന് ഡയോഡുകളുടെ ഒരു സ്ട്രിംഗും ഉണ്ട് കൂടാതെ എനിക്ക് ഇവിടെ ഹാഫ് എ mA ഉം അവിടെ 0 75 mA ഉം ഉണ്ട് ഇപ്പോൾ എനിക്ക് എന്ത് ലഭിക്കും ആദ്യ ഡയോഡിലെ ഇതിൽ കറൻറ് 0 5 mA ആണ് രണ്ടാമത്തെ ഡയോഡിൽ നമുക്ക് ഇവിടെ നിന്ന് ഹാഫ് എ mA ഉം ഒഴുകുന്നു കൂടാതെ ഇവിടെ നിന്നും ഹാഫ് എ mA ഉണ്ട് അതിനാൽ ഇത് 1 mA ആണ് ഇത് 1 mA മൈനസ് 0 75 mA ആണ് ഇത് നിങ്ങൾക്ക് 0 25 mA നൽകും ഇത് അടിസ്ഥാനപരമായി ഒരു സ്ട്രിംഗിലെ മൂന്ന് ഡയോഡുകളാണ് പക്ഷേ ഓരോന്നിലും വ്യത്യസ്ത കറൻറുകൾ ഒഴുകുന്നു ഇൻക്രിമെന്റൽ ചിത്രത്തിൽ തീർച്ചയായും ഈ ഹാഫ് എ mA സോഴ്സ് നമ്മൾക്കില്ല സിഗ്നൽ സോഴ്സ് എന്തായിരിക്കും അത് 0 1 mA sin ωt ആണ് അതിനാൽ മൂന്ന് ഡയോഡുകളും ഫോർവേഡ് ബയസ്ഡ് ആണ് അതിനാൽ ഓരോന്നിനു കുറുകെയും 0 7 V ഉണ്ടെന്ന് അർത്ഥമാക്കുന്നു അതിനാൽ ഡയോഡിന്റെ സ്ട്രിംഗിലുടനീളമുള്ള മൊത്തം വോൾട്ടേജ് 2 1 V ആണ് അതിനാൽ അതാണ് ഈ V0 അതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം അടുത്ത ചോദ്യം ഇതിന് സമാനമാണ് നിങ്ങളോട് ഇൻക്രിമെന്റൽ പീക്ക് വോൾട്ടേജ് ആവശ്യപ്പെട്ടിരുന്നു ഇൻക്രിമെന്റൽ പീക്ക് ഇൻപുട്ട് 0 1 mA ആണ് ഇവിടെ നമ്മൾ ഇത് കണക്കാക്കണം ഇപ്പോൾ ഇൻക്രിമെന്റൽ ഇക്യുവാലൻറ് സർക്യൂട്ട് വരയ്ക്കേണ്ടതുണ്ട് ഈ ഡയോഡുകളിൽ ഓരോന്നിന്റെയും ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു ഇത് 0 5 mA ആണ് ഇത് 1 mA ആണ് ഇത് 0 25 mA ആണ് ഇൻക്രിമെന്റൽ ചിത്രത്തിൽ ഈ ഹാഫ് mA ന്റെ ഫിക്സ്ഡ് സോഴ്സ് ഇല്ല അതിനാൽ 0 0 1 mA sin ωt ആണെന്ന് കാണാം നമുക്ക് ഈ ഡയോഡ് ഉണ്ട് 0 5 mA അതിലൂടെ ഒഴുകുന്നു അതിനാൽ ഇതിനെ ഒരു റെസിസ്റ്റൻസ് കൊണ്ട് പ്രതിനിധീകരിക്കുന്നു ഇത് Vt യെ കറൻറ് കൊണ്ട് ഹരിക്കുന്നതിന് തുല്യമാണ് അത് 50 Ω ആണ് ഞാൻ Vt 25 mV ആണെന്ന് കരുതുന്നു രണ്ടാമത്തെ ഡയോഡിൽ ഇത് ഇൻക്രിമെന്റൽ റെസിസ്റ്റൻസ് 25Ω ആണ് മൂന്നാമത്തെ ഡയോഡിൽ ഇൻക്രിമെന്റൽ റെസിസ്റ്റൻസ് 100Ω ആണ് ശരിക്കും ലളിതമായ സർക്യൂട്ട് ആണ് നമുക്ക് ആകെ വേണ്ടത് ഈ വോൾട്ടേജ് മാത്രമാണ് അത് അങ്ങനെ 0 1 mA തവണ മൊത്തം റെസിസ്റ്റൻസ് ആണ് അത് നിങ്ങൾക്ക് 17 5 mV തരുന്നു അതിനാൽ ഉത്തരം 17 5 ആണ് അടുത്ത ചോദ്യത്തിന് നിങ്ങൾക്ക് ഒരു സോഴ്സും ഒരു റെസിസ്റ്ററും ഒരു ലീനിയർ എലമെൻറും ഉള്ള ഒരു സർക്യൂട്ട് നൽകുന്നു നോൺലീനിയർ എലമെൻറിന്റെ സവിശേഷതകൾ അതായത് I V സവിശേഷതകൾ ഇവിടെ കാണിച്ചിരിക്കുന്നു ആദ്യ ഭാഗത്ത് നിങ്ങൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് കണക്കാക്കണം അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ഇതിൽ നിന്ന് പുറന്തള്ളുന്ന പവർ കണക്കാക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗ്രാഫിക്കൽ വിശകലനം വഴി ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ഇത് പീസ് വൈസ് ലീനിയർ ആണ് നിങ്ങൾക്ക് ഈ മൂന്ന് ഭാഗങ്ങളുടെയും ഓരോ നേർരേഖകൾക്കായി സമവാക്യങ്ങൾ എഴുതാനും അത് എവിടെയാണ് കൂട്ടിമുട്ടുന്നതെന്നും കൺസിസ്റ്റന്റ് ആയി പരിഹാരം എവിടെയാണെന്നും കാണാനാകും എന്നാൽ എളുപ്പമുള്ള കാര്യം ഈ V യും I യും എടുത്ത് ഗ്രാഫിക്കലി ചെയ്യുന്നതാണ് അതിനാൽ ഇതാണ് I ഓപ്പറേറ്റിംഗ് പോയിന്റിൽ നമുക്ക് ഇത് ഇല്ല അതിനാൽ I എന്നത് 5 V മൈനസ് V ആയിരിക്കും ഇത് നോൺലീനിയർ എലമെൻറിന് കുറുകേയുള്ള വോൾട്ടേജാണ് അല്ലെങ്കിൽ V0 നെ 1 kΩകൊണ്ട് ഹരിച്ചത് ഇവിടെ ഒരേ അക്ഷത്തിൽ ഞാൻ അത് വരയ്ക്കാം y ആക്സിസ് ഇന്റർസെപ്റ്റ് 5 mA ഉം x ആക്സിസ് ഇന്റർസെപ്റ്റ് 5 V ഉം ആണെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും സ്ട്രെയിറ്റ് ലൈൻ ആ വഴിക്ക് പോകുന്നു പോയിന്റിന്റെ ഇന്റർസെക്ഷനിൽ നിങ്ങൾക്ക് അത് കണക്കാക്കാം അത് വോൾട്ടേജ് 2 5 V ഉം കറൻറ് 2 5 mA ഉം ആയി മാറുന്നു അതിനാൽ ഉപകരണത്തിനു കുറുകേയുള്ള വോൾട്ടേജ് 2 5 V ആയിരിക്കും ഉപകരണത്തിലൂടെയുള്ള കറൻറ് 2 5 mA ആയിരിക്കും അതിനാൽ ഉപകരണത്തിൽ ഡിസിപേറ്റ് ചെയ്യുന്ന വൈദ്യുതി രണ്ടിന്റേയും ഗുണനഫലമായിരിക്കും അത് 6 25 mW ആണ് ഒരു ദശാംശ സ്ഥാനത്തേക്ക് പവർ റൌണ്ട് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു അതിനാൽ ഇത് 6 അതിനാൽ അതാണ് ഉത്തരം ഇപ്പോൾ അടുത്ത ചോദ്യം മറ്റേതുമായി സമാനമാണ് ആകെയുള്ള വ്യത്യാസം ഇതിൽ നിങ്ങളോട് സിനുസോയ്ഡൽ ഘടകം മാത്രം കണക്കാക്കാൻ ആവശ്യപ്പെടുന്നു അതിനാൽ നിങ്ങൾക്ക് ഇൻക്രിമെന്റൽ അനാലിസിസ് ചെയ്യണം ഇൻക്രിമെന്റൽ ചിത്രത്തിൽ ഈ 5 V പോകുന്നു അതാണ് ഫിക്സ്ഡ് പാർട്ട് നമുക്ക് ഇൻക്രിമെന്റ് ഉണ്ട് അത് 0 1 V cos ωt ആണ് നമുക്ക് 1 kΩ ഉണ്ട് ഇത് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ അതിന്റെ ലൂപ്പ് ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കണം കൂടാതെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇവിടെയാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് 2 5 V ഉം 2 5 mA ഉം ആണ് എന്താണ് സ്ലോപ്പ് ഈ സ്ലോപ്പ് നെഗറ്റീവ് ആണെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും അതിനാൽ സ്ലോപ്പ് 3 V ന്റെ വോൾട്ടേജ് പരിധിയിൽ 1 mAന്റെ കുറവുണ്ട് അതിനാൽ ഇൻക്രിമെന്റൽ കണ്ടക്ടൻസ് 13 mS ആണ് അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ റെസിസ്റ്റൻസ് 3 kΩ ആണ് അതിനാൽ ഇത് 3 kΩ ആണ് ഇത് ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് ആണ് അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇതിന്റെ ഒരു ഭാഗത്തിന് നെഗറ്റീവ് സ്ലോപ്പ് ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് ഉണ്ട് ഓർക്കുക ഇത് ഇൻക്രിമെന്റൽ അർത്ഥത്തിൽ മാത്രമാണ് നിങ്ങൾ വോൾട്ടേജ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കറന്റ് യഥാർത്ഥത്തിൽ കുറയുന്നുവെന്ന് ഇത് പറയുന്നു അതിനാൽ ഇൻക്രിമെന്റൽ അർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് ഉണ്ട് എന്നാൽ നിങ്ങൾക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ അത് പവർ ഉൽപാദിപ്പിക്കും എന്നാൽ ഈ സവിശേഷതകൾ ആദ്യത്തെ ക്വാഡ്രന്റിൽ മാത്രമേ ഉള്ളുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഈ എലമെൻറ് പവർ ഡിസിപേറ്റ് ചെയ്യുന്നു പക്ഷേ ഇൻക്രിമെന്റൽ അർത്ഥത്തിൽ ഇത് ഒരു നെഗറ്റീവ് പ്രതിരോധമാണ് ഔട്ട്പുട്ട് കണക്കാക്കുന്നത് വളരെ എളുപ്പമാണ് റെസിസ്റ്റൻസ് ഒരെണ്ണം നെഗറ്റീവ് ആണെന്നത് ഒഴിച്ചാൽ വോൾട്ടേജ് ഡിവൈഡർ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തതിന് സമാനമാണ് ഇത് അതിനാൽ ഇതിന് കുറുകേയുള്ള വോൾട്ടേജ് 0 1 V 3 kΩ 1 kΩ 3 kΩ ആയിരിക്കും ഇത് നിങ്ങൾക്ക് 0 15 V അല്ലെങ്കിൽ 150 mV നൽകുന്നു അതിനാൽ ന്യൂമറിക്കൽ ഉത്തരം 150 ആണ് mV ആണ് ആംപ്ലിറ്റ്യൂഡ് ഇതിനെക്കുറിച്ചുള്ള രസകരമായ കാര്യം ഔട്ട്പുട്ട് ആംപ്ലിറ്റ്യൂഡ് ഇതാണ് റെസിസ്റ്റീവ് ഡിവൈഡർ എന്നാൽ ഈ റെസിസ്റ്റൻസ് നെഗറ്റീവ് ആണ് കാരണം ഈ ഔട്ട്പുട്ട് ആംപ്ലിറ്റ്യൂഡ് യഥാർത്ഥത്തിൽ ഇൻപുട്ട് ആംപ്ലിറ്റ്യൂഡിനേക്കാൾ കൂടുതലാണ് അതിനാൽ വാസ്തവത്തിൽ ഇതും ഒരു ആംപ്ലിഫയർ പോലെയാണ് പ്രവർത്തിക്കുന്നത് അതായത് ഇൻക്രിമെന്റൽ അർത്ഥത്തിൽ ആംപ്ലിഫയർ വാസ്തവത്തിൽ ഈ സ്വഭാവത്തിന് അനുയോജ്യമായ ഒരു യഥാർത്ഥ ഉപകരണം ഉണ്ടെന്നുള്ള രീതിയിൽ ഇത് മാറുന്നു തീർച്ചയായും ഇതിന് ഈ സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റുകളില്ല സ്വഭാവസവിശേഷതകൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും ഇത് എന്തായാലും ഒറിജിനിലൂടെ കടന്നുപോകും ഇത് ടണൽ ഡയോഡ് എന്നറിയപ്പെടുന്നു അതിനാൽ ഈ ടണൽ ഡയോഡിലെ നെഗറ്റീവ് ഇൻക്രിമെന്റൽ റെസിസ്റ്റൻസ് കണ്ടെത്തി ആംപ്ലിഫയറുകൾക്കും ഓസിലേറ്ററുകൾക്കും ആണ് ഇത് ഉപയോഗിച്ചിരുന്നത് ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നു പക്ഷേ ഇത് അത്ര സൌകര്യപ്രദമല്ല കാരണം ഒരു ആംപ്ലിഫയറിൽ നിങ്ങൾ രണ്ട് പോർട്ടുകൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു അതിൽ ഒന്നു നിങ്ങൾക്ക് ഇൻപുട്ടിനെ ഫീഡ് ചെയ്യുന്നതിന്നും മറ്റൊന്നു നിങ്ങൾക്ക് ഔട്ട്പുട്ട് എടുക്കുന്നതിന്നും ആ അർത്ഥത്തിൽ ടു ടെർമിനൽ ഉപകരണം ഒരു ആംപ്ലിഫയറായി ഉപയോഗിക്കാൻ കഴിയും ഇത് വളരെ സൌകര്യപ്രദമല്ലെങ്കിലും ഇത് ഉപയോഗിക്കാം അതിനാൽ ഇത് വളരെ ജനപ്രിയമല്ല നമുക്ക് രണ്ട് പോർട്ടുകളുള്ള ട്രാൻസിസ്റ്ററുകൾ ഉണ്ട് നമുക്ക് ഒരു വശത്ത് നിന്ന് ഇൻപുട്ട് നൽകാനും മറുവശത്ത് നിന്ന് ഔട്ട്പുട്ട് എടുക്കാനും കഴിയും ഇതുപോലുള്ള രണ്ട് ടെർമിനൽ എലമെൻറിൽ നിങ്ങൾക്ക് ഇൻപുട്ടിനെ ഒരേ രണ്ട് ടെർമിനലുകളിലേക്ക് കൊടുക്കുകയും ഒരേ രണ്ട് ടെർമിനലുകളിൽ ഔട്ട്പുട്ട് ടാപ്പ് ചെയ്യുകയും വേണം എന്നിരുന്നാലും ഇത് ഉപയോഗിക്കാൻ കഴിയും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾക്കായി നിങ്ങൾക്ക് വെബ് ഫോറത്തിൽ ടണൽ ഡയോഡ് പരിശോധിക്കാം